മൊഡ്യൂൾ 2 യൂണിറ്റ് 15 ലേക്ക് സ്വാഗതം കോഴ്സ് എക്സിറ്റ് സർവേ മുമ്പത്തെ യൂണിറ്റിലെ വിലയിരുത്തൽ ഘട്ടത്തിന്റെ ഉപപ്രക്രിയ ഞങ്ങൾ മനസ്സിലാക്കി ഈ യൂണിറ്റിൽ ഞങ്ങൾ കോഴ്സ് എക്സിറ്റ് സർവേ ചർച്ച ചെയ്യും ഫലം "കോഴ്സ് എക്സിറ്റ് സർവേയുടെ രൂപകൽപ്പനയും ഉപയോഗവും മനസിലാക്കുക" എന്നതാണ് മുമ്പത്തെ യൂണിറ്റിൽ കണ്ടതുപോലെ മൂല്യനിർണ്ണയ ഘട്ടത്തിലെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് കോഴ്സ് എക്സിറ്റ് സർവേ ഫാക്കൽറ്റിയെക്കുറിച്ച് മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ലഭിക്കുന്ന ഫീഡ്ബാക്കിൽ നിന്ന് ഞങ്ങൾ ഇവിടെ പരിഗണിക്കുന്ന ഫീഡ്ബാക്ക് ഫോം അല്പം വ്യത്യസ്തമാണ് മിക്ക സ്ഥാപനങ്ങളും എഞ്ചിനീയറിംഗിന്റെ എല്ലാ ശാഖകളുടെയും എല്ലാ കോഴ്സുകൾക്കുമായി വിദ്യാർത്ഥികളുടെ ഒരു ഫീഡ്ബാക്ക് ഫോം രൂപകൽപ്പന ചെയ്യുന്നു ഒപ്പം ഈ ഫീഡ്ബാക്ക് ശേഖരിക്കുന്നതിനുള്ള ഒരു സാധാരണ സംവിധാനവുമുണ്ട് എന്നാൽ ഈ ഫീഡ്ബാക്കിന്റെ പ്രാഥമിക ലക്ഷ്യം വിദ്യാർത്ഥികളുടെ ഫാക്കൽറ്റി വിലയിരുത്തലാണ് സാധാരണയായി ഇത് അക്രഡിറ്റേഷന് ആവശ്യമായ FPEDS ഫാക്കൽറ്റി പെർഫോമൻസ് ഇവാലുവേഷൻ ആൻഡ് ഡവലപ്മെന്റ് സിസ്റ്റം ന്റെ ഭാഗമായാണ് നടത്തുന്നത് ഈ ഫീഡ്ബാക്ക് പ്രാഥമികമായി ഫാക്കൽറ്റിയെ വിലയിരുത്തുന്നതിന് ഉപയോഗിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വികസന തലത്തിലോ ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിലോ ഉചിതമായ നടപടികൾ കൈക്കൊള്ളുന്നു അത്തരമൊരു ഫീഡ്ബാക്ക് ഫോമിന്റെ രൂപകൽപ്പനയിൽ ഇൻസ്ട്രക്ടർക്ക് ഒരു ചോയ്സ് ഇല്ല ഫീഡ്ബാക്ക് ഫോക്കസ് വിദ്യാർത്ഥികളുടെ ഇൻസ്ട്രക്ടറുടെ വിലയിരുത്തലായതിനാൽ കോഴ്സിനെക്കുറിച്ച് ഫീഡ്ബാക്ക് ലഭിക്കുന്നതിന് കൂടുതൽ സാധ്യതയില്ല അതിനാൽ അത്തരമൊരു സർവേയിൽ നിന്ന് കോഴ്സ് നിർദ്ദിഷ്ട ഫീഡ്ബാക്ക് ലഭിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് ഫീഡ്ബാക്ക് പ്രാഥമികമായി ഇൻസ്ട്രക്ടറെ വിലയിരുത്തുന്നു ഈ സ്റ്റാൻഡേർഡ് ഇൻസ്ട്രക്ടർ മൂല്യനിർണ്ണയ ഫീഡ്ബാക്ക് ഫോം ഒരു കോഴ്സ് എക്സിറ്റ് സർവേ ഫോം എന്ന നിലയിൽ മികച്ചതായിരിക്കണമെന്നില്ല കാരണം ഈ ഫീഡ്ബാക്കിലെ ശ്രദ്ധ വിദ്യാർത്ഥിയുടെ ഇൻസ്ട്രക്ടറുടെ വിലയിരുത്തലാണ് അതേസമയം ഒരു കോഴ്സ് എക്സിറ്റ് സർവേയിലെ ശ്രദ്ധ കോഴ്സിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്ക് ലക്ഷ്യത്തോടെ നേടുക എന്നതാണ് അടുത്ത തവണ കോഴ്സ് നടപ്പിലാക്കുന്നത് മെച്ചപ്പെടുത്തുന്നതിന് കോഴ്സ് എക്സിറ്റ് സർവേ ഇത് ഇൻസ്ട്രക്ടർക്ക് വിലയേറിയ ഫീഡ്ബാക്ക് നൽകുന്നു പഠനത്തിന്റെ ഗുണനിലവാരം ഉയർത്തുന്നതിന് അത്തരമൊരു ഫീഡ്ബാക്ക് വളരെ സഹായകരമാണ് മാത്രമല്ല കോഴ്സ് തലത്തിൽ ഗുണനിലവാരമുള്ള ലൂപ്പ് അടയ്ക്കാൻ ഇത് ഞങ്ങളെ സഹായിക്കും പ്ലാൻ ഡു ചെക്ക് ആക്റ്റ് മുമ്പത്തെ മൊഡ്യൂളിൽ ഞങ്ങൾ കണ്ടതുപോലെ ഈ ഗുണനിലവാര ലൂപ്പ് അടയ്ക്കുക അടുത്ത തവണ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ കോഴ്സ് നടപ്പിലാക്കുന്നതിലെ മെച്ചപ്പെടുത്തലുകൾ ആസൂത്രണം ചെയ്യുക കോഴ്സുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി ഫീഡ്ബാക്ക് ഡാറ്റ ലഭിക്കുമ്പോൾ അത് വളരെയധികം സുഗമമാക്കുന്നു ഞങ്ങൾ നേരത്തെ കണ്ട മിഡ് കോഴ്സ് സർവേകൾ കോഴ്സ് ഡെലിവറി സമയത്ത് നിർദ്ദേശങ്ങൾ ചലനാത്മകമായി പൊരുത്തപ്പെടുത്താൻ അവ ഇൻസ്ട്രക്ടറെ സഹായിക്കുന്നു എന്നാൽ കോഴ്സ് എക്സിറ്റ് സർവേ സമ്മേറ്റിവ് ആണ് മാത്രമല്ല കോഴ്സ് വീണ്ടും ഓഫർ ചെയ്യുമ്പോൾ നടപ്പാക്കൽ മെച്ചപ്പെടുത്തുന്നതിന് ഇത് ഉപയോഗപ്രദമാണ് പ്രാഥമികമായി കോഴ്സ് എക്സിറ്റ് സർവേ സമ്മേറ്റിവ് ആണ് കൂടാതെ കോഴ്സ് നടപ്പിലാക്കൽ മെച്ചപ്പെടുത്തുന്നതിനാണ് ഫീഡ്ബാക്ക് അടുത്ത തവണ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ കോഴ്സ് ഫലങ്ങളുടെ പരോക്ഷ നേട്ടം കണക്കാക്കുന്നതിലും കോഴ്സ് എക്സിറ്റ് സർവേ ഉപയോഗിക്കാം എന്നിരുന്നാലും എൻബിഎ തന്നെ ഈ സമീപനത്തെ വ്യക്തമായി തിരിച്ചറിയുകയോ നിർബന്ധിക്കുകയോ ചെയ്യുന്നില്ല മുമ്പത്തെ മൊഡ്യൂളിൽ കോഴ്സ് ഫലങ്ങളുടെ നേട്ടം കണക്കാക്കുമ്പോൾ നേരിട്ടുള്ള സമീപനങ്ങളിൽ നിന്ന് കണക്കാക്കിയ മൂല്യത്തെ പരോക്ഷമായി കണക്കാക്കിയ മൂല്യവുമായി സംയോജിപ്പിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ കണ്ടു 9010 അനുപാതത്തിലായിരിക്കാം ടെസ്റ്റുകൾ ക്വിസുകൾ അസൈൻമെന്റുകൾ പരോക്ഷ കണക്കുകൂട്ടൽ എന്നിവയുൾപ്പെടെ എല്ലാ മൂല്യനിർണ്ണയ ഉപകരണങ്ങളിലെയും വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും നേരിട്ടുള്ള കണക്കുകൂട്ടൽ പരോക്ഷമായ രീതിയിൽ സിഒയുടെ നേട്ടം കണക്കാക്കാൻ കോഴ്സ് എക്സിറ്റ് സർവേ ഞങ്ങളെ സഹായിക്കും ഇൻസ്ട്രക്ടർ കോളേജ് അനുവദിക്കുകയാണെങ്കിൽ അവന്റെ അവളുടെ സ്വന്തം കോഴ്സ് എക്സിറ്റ് സർവേ ഫോം രൂപകൽപ്പന ചെയ്യണം കാരണം കോഴ്സ് എക്സിറ്റ് സർവേയിൽ ഒരു ഇൻസ്ട്രക്ടർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന നിർദ്ദിഷ്ട ചോദ്യങ്ങൾ വ്യത്യസ്ത കോഴ്സുകൾക്കും വ്യത്യസ്ത ഇൻസ്ട്രക്ടർമാർക്കും വ്യത്യസ്തമായിരിക്കും അതിനാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈഡ് ഫോം ഒരു കോഴ്സ് എക്സിറ്റ് സർവേയായി ഉപയോഗിക്കാൻ അനുയോജ്യമല്ലായിരിക്കാം ഇൻസ്ട്രക്ടർക്ക് സ്വന്തം കോഴ്സ് എക്സിറ്റ് സർവേ ഫോം അനുവദിക്കണം ഇൻസ്റ്റിറ്റ്യൂട്ടിന് ആവശ്യമെങ്കിൽ ഈ കോഴ്സ് എക്സിറ്റ് സർവേ ഫോം ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ കോമൺ മൂല്യനിർണ്ണയ ഫോമിലേക്ക് സംയോജിപ്പിക്കാൻ കഴിയും സർവേ ഫോം പ്രധാനമായും വിദ്യാർത്ഥികൾ ഫാക്കൽറ്റിയെ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടിലുടനീളം പൊതുവായുള്ള ഒരു ഭാഗവും വാഗ്ദാനം ചെയ്ത കോഴ്സിന് പ്രത്യേകമായ ഒരു ഭാഗവും ഉണ്ടായിരിക്കും നിങ്ങൾക്ക് ഒരു അക്കാദമിക് മാനേജുമെന്റ് സിസ്റ്റമോ ഒരു പഠന മാനേജുമെന്റ് സിസ്റ്റമോ ഉണ്ടെങ്കിൽ ഓരോ കോഴ്സിനും ഒരു സംഗ്രഹവിദ്യാർത്ഥിഫീഡ്ബാക്ക് റിപ്പോർട്ട് സൃഷ്ടിക്കാൻ ഇത് അനുവദിച്ചേക്കാം കോഴ്സ് എക്സിറ്റ് സർവേയിലെ പ്രധാന വെല്ലുവിളികളിൽ ഒന്ന് സാധുവായ സർവേ ഡാറ്റ നേടുക എന്നതാണ് ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള എല്ലായിടത്തും ഇതാണ് പ്രശ്നം സർവേകൾ എങ്ങനെ രൂപകൽപ്പന ചെയ്യാം സാധുവായ ഡാറ്റ ലഭിക്കുന്നതിന് സർവേകൾ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെക്കുറിച്ച് ഗവേഷണ സാഹിത്യത്തിന്റെ ഗണ്യമായ ഭാഗം ലഭ്യമാണ് ഏതൊരു സർവേയിലും സാധുവായ ഡാറ്റ നേടുക എന്നത് ഒരു പ്രധാന വെല്ലുവിളിയാണ് കോഴ്സ് എക്സിറ്റ് സർവേയുടെ കാര്യത്തിൽ ഇത് പ്രത്യേകിച്ച് കഠിനമാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് നൽകിയാൽ തങ്ങൾ ഇരയാകുമെന്ന് വിദ്യാർത്ഥികൾ ഭയപ്പെട്ടേക്കാം ഒരു പരിധിവരെ തീർച്ചയായും ഫീഡ്ബാക്ക് അജ്ഞാതമാക്കി ഇത് ഒഴിവാക്കാനാകും എന്നിട്ടും നെഗറ്റീവ് ഫീഡ്ബാക്ക് നൽകരുതെന്ന് വിദ്യാർത്ഥികളിൽ ചില ആശങ്കകളുണ്ടാകാൻ സാധ്യതയുണ്ട് കൂടാതെ മിക്കപ്പോഴും വിദ്യാർത്ഥികൾ അവരുടെ ഫീഡ്ബാക്ക് ശരിക്കും പ്രധാനമല്ലെന്നും പ്രക്രിയ കേവലം ഔപചാരികതയാണെന്നും അനുമാനിക്കുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിലുള്ള ചില പ്രക്രിയകൾ ഒരു കോഴ്സിന്റെ എക്സിറ്റ് സർവേ നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു ഒരു ഇൻസ്ട്രക്ടറും ഈ ഡാറ്റ ശരിക്കും ഉപയോഗിക്കുന്നില്ലെന്നാണ് ധാരണ കോഴ്സ് എക്സിറ്റ് സർവേ യഥാർത്ഥത്തിൽ കേവലം ഔപചാരികതയായിട്ടാണ് നടത്തുന്നത് എന്നത് പല സ്ഥാപനങ്ങളിലും ശരിയായിരിക്കാം മിക്കപ്പോഴും ഇൻസ്ട്രക്ടർമാർ ഡാറ്റ ശേഖരിക്കുകയും ഫയൽ ചെയ്യുകയും ചെയ്യുന്നു അടുത്ത തവണ ഓഫർ ചെയ്യുമ്പോൾ കോഴ്സ് ഡെലിവറി ചെയ്യുന്നതിനുള്ള മെച്ചപ്പെടുത്തലുകൾ ആസൂത്രണം ചെയ്യാൻ അവർ ഈ ഡാറ്റ ഉപയോഗിക്കുന്നില്ല പ്രക്രിയ ചില നിർമ്മാണങ്ങൾ ആവശ്യപ്പെടുന്നുവെങ്കിൽ ചില അഭിപ്രായങ്ങൾ കോഴ്സ് ഫയലിൽ ഉൾപ്പെടുത്താം പക്ഷേ കോഴ്സ് ഡെലിവറി മെച്ചപ്പെടുത്തുന്നതിനുള്ള യഥാർത്ഥ ഉദ്ദേശ്യത്തോടെയല്ലാതെ കൂടുതൽ ഔപചാരികമായ രീതിയിൽ അതിനാൽ ഒരുപക്ഷേ ഗൌരവമേറിയതും അർത്ഥവത്തായതുമായ രീതിയിൽ സർവേ ഡാറ്റ ഇൻസ്ട്രക്ടർമാർ ശരിക്കും ഉപയോഗിക്കുന്നില്ലെന്ന് കരുതുന്നതിൽ വിദ്യാർത്ഥികൾ തെറ്റായിരിക്കില്ല ഇത് ശരിക്കും സാധുതയില്ലാത്ത ഡാറ്റ നൽകാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുന്നു മറ്റൊരു പ്രശ്നം സർവേ ഫോമിന്റെ ദൈർഘ്യമാകാം സർവേ ഫോമിൽ നിരവധി ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് ക്ഷീണം ഉണ്ടാക്കാം എന്ന അർത്ഥത്തിൽ വിദ്യാർത്ഥികളിൽ നിന്നുള്ള പ്രതികരണങ്ങളുടെ ഗുണനിലവാരത്തെയും സ്വാധീനിച്ചേക്കാം അതിനാൽ ഉത്തരം നൽകിയതിന് ശേഷം ആദ്യത്തെ 15 20 ചോദ്യങ്ങൾ ശേഷം വിദ്യാർത്ഥികൾ ശരിക്കും യുക്തിസഹമായ പ്രതികരണങ്ങളേക്കാൾ കൂടുതൽ യാന്ത്രിക പ്രതികരണങ്ങൾ നൽകാം ഒരു സർവേ ഫോമിന്റെ അനുയോജ്യമായ ദൈർഘ്യം എന്തായിരിക്കണം ഇത് സംബന്ധിച്ച് കർശനവും വേഗത്തിലുള്ളതുമായ ഒരു നിയമവുമില്ല ഇൻസ്ട്രക്ടർമാർ അവരുടെ നിർദ്ദിഷ്ടസന്ദർഭത്തിൽ പരീക്ഷണം നടത്തുകയും മികച്ചത് എന്താണെന്ന് കാണുകയും വേണം വാസ്തവത്തിൽ സാധുവായ സർവേ ഡാറ്റ നേടുന്നതിലെ തടസ്സങ്ങളെ മറികടക്കാൻ ഉറപ്പുള്ള ഒരു മാർഗവുമില്ലെന്ന് പൊതുവേ ഞങ്ങൾക്ക് പറയാൻ കഴിയും ഡിപ്പാർട്ട്മെന്റ് തലത്തിലുള്ള ഫാക്കൽറ്റിയിൽ നിന്ന് അവർക്ക് ചില പ്രത്യേക പരീക്ഷണങ്ങൾ ആവശ്യമാണ് ഒരുപക്ഷേ ഇൻസ്റ്റിറ്റ്യൂട്ട് തലത്തിൽ അവർക്ക് ഏറ്റവും മികച്ചത് എന്താണെന്ന് കാണാനും ഈ കോഴ്സ് എക്സിറ്റ് സർവേയിൽ ആരാണ് പങ്കെടുക്കേണ്ടത് എന്നതാണ് മറ്റൊരു പ്രശ്നം "ക്രമരഹിതമായ" വിദ്യാർത്ഥികൾ നൽകുന്ന ഡാറ്റയ്ക്ക് പരിമിതമോ സാധുതയോ ഇല്ലെന്ന് പല ഇൻസ്ട്രക്ടർമാരും ശക്തമായി കരുതുന്നു ചില സ്ഥാപനങ്ങൾ കോഴ്സ് എക്സിറ്റ് സർവേയിൽ പങ്കെടുക്കുന്നതിന് പ്രവേശന മാനദണ്ഡം ഏർപ്പെടുത്തുന്നു കൂടുതൽ ഹാജരാകുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് 75 എന്ന് പറയട്ടെ സർവേയിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ചില സ്ഥാപനങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രകടനത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രവേശന മാനദണ്ഡം പോലും നൽകുന്നു ടെസ്റ്റുകളിൽ ശരാശരി പ്രകടനം കൂടുതലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ 65 എന്ന് പറയട്ടെ കോഴ്സ് എക്സിറ്റ് സർവേയിൽ പങ്കെടുക്കാൻ കഴിയൂ ക്ലാസുകൾക്ക് ക്രമരഹിതമായി ഹാജരാകുന്ന വിദ്യാർത്ഥികൾക്ക് സാധുവായ ഡാറ്റ നൽകാൻ കഴിഞ്ഞേക്കില്ല എന്നതിന് ചില സത്യങ്ങളുണ്ടെങ്കിലും പ്രവേശന മാനദണ്ഡമായി പ്രകടനം നിശ്ചയിക്കുന്നത് ശരിക്കും അഭികാമ്യമല്ല കോഴ്സിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കാത്ത വിദ്യാർത്ഥികളിൽ നിന്നും ഫീഡ്ബാക്ക് നേടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനാൽ അടുത്ത തവണ ഓഫർ ചെയ്യുമ്പോൾ കോഴ്സ് ഡെലിവറിയിലെ മെച്ചപ്പെടുത്തലുകൾ കണ്ടെത്തുന്നതിന് ആ ഫീഡ്ബാക്ക് വിലപ്പെട്ടതായിരിക്കും എന്നാൽ ഹാജർ ഒരു പക്ഷേ അതെ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ശക്തമായി തോന്നുകയാണെങ്കിലോ ഡിപ്പാർട്ട്മെന്റിനോ ഇൻസ്ട്രക്ടർക്കോ ഇതിനെക്കുറിച്ച് ശക്തമായി തോന്നുകയാണെങ്കിലോ എക്സിറ്റ് സർവേയിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥിയെ അനുവദിക്കുന്നതിന് മുമ്പ് മിനിമം ഹാജർ ശതമാനം ആവശ്യമാണെന്ന് അവർക്ക് നിഷ്കർഷിക്കാം എന്നാൽ ഉറപ്പുള്ളതോ അതുല്യമായതോ കോഴ്സ് എക്സിറ്റ്സർവേ രൂപകൽപ്പന ചെയ്യുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ശരിയായ മാർഗ്ഗമില്ല പരീക്ഷിച്ച് ഒരു പ്രത്യേക കോഴ്സ് എക്സിറ്റ് സർവേ ഫോം കൊണ്ടുവരണം ഇവയെല്ലാം വ്യക്തമായി കണക്കിലെടുക്കേണ്ട പ്രശ്നങ്ങളാണ് മാത്രമല്ല അവരുടെ ആവശ്യങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സർവേ ഫോമിൽ എത്തുമ്പോൾ അവ വ്യക്തമായി പരിഗണിക്കേണ്ടതുണ്ട് സാധുവായ സർവേ ഡാറ്റ ലഭിക്കുന്നതിന് ഇലക്ട്രോണിക് രീതിയിലും അജ്ഞാതമായും നൽകുന്ന ഫീഡ്ബാക്ക് സാധാരണയായി ആവശ്യമാണ് ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് നൽകിയാൽ തങ്ങൾ ഇരയാക്കപ്പെടുമെന്ന വിദ്യാർത്ഥികളുടെ മനസ്സിലുള്ള ഭയം നീക്കംചെയ്യുന്നു ഫീഡ്ബാക്ക് ഇലക്ട്രോണിക് ആണ് അത് അജ്ഞാതമാണ് വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ സിസ്റ്റം ഇലക്ട്രോണിക് ആണെങ്കിൽ അത്തരമൊരു ഫീഡ്ബാക്ക് നൽകാൻ അവർ കൂടുതൽ സാധ്യതയുണ്ട് കാരണം ഇത് അജ്ഞാത ഡാറ്റ നൽകാൻ അനുവദിക്കുന്നു തീർച്ചയായും അജ്ഞാതമാകുമ്പോൾ ചില വിദ്യാർത്ഥികൾ ശരിക്കും സാധുവായ അഭിപ്രായങ്ങളല്ലാത്ത അഭിപ്രായങ്ങൾ നൽകാം എന്ന അർത്ഥത്തിലും ഇതിനൊരു വശമുണ്ട് പക്ഷേ അവർ വിദ്യാർത്ഥികളുടെ നിരാശ പ്രകടിപ്പിക്കുന്നു സർവേയിൽ സാധുവായ ഡാറ്റ ലഭിക്കുന്നത് എല്ലായ്പ്പോഴും ഒരു പ്രശ്നമാണ് ഒരു നീണ്ട കാലയളവിൽ സ്ഥിതിവിവരക്കണക്കനുസരിച്ച് സർവേ ഡാറ്റ അർത്ഥവത്തായതും ഉപയോഗപ്രദവുമാണെന്ന് ആളുകൾ കണ്ടെത്തി സാധുവായ നിഗമനങ്ങളിൽ എത്താൻ ഇൻസ്ട്രക്ടർമാർക്ക് അവരുടെ വിവേചനാധികാരം അനുസരിച്ച് സർവേ ഡാറ്റ ഉപയോഗിക്കാം ഇൻസ്ട്രക്ടർ സർവേ ഡാറ്റ ശേഖരിക്കുന്നതിന് മുമ്പ് സർവേ ഡാറ്റ പ്രാധാന്യത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് വിദ്യാർത്ഥികളുമായി ഗുണനിലവാരമുള്ള സമയം ചെലവഴിക്കുന്നതും അത്യാവശ്യമോ വളരെ ഉപയോഗപ്രദമോ ആകാം വാസ്തവത്തിൽ സർവേ ഫോം നൽകുന്നതിനുമുമ്പ് വിദ്യാർത്ഥികളുമായുള്ള അത്തരം ഇടപെടൽ ഡാറ്റയുടെ സാധുതയിൽ വളരെ ഗുണപരവും പ്രയോജനകരവുമായ സ്വാധീനം ചെലുത്തുന്നുവെന്ന് പല പരീക്ഷണങ്ങളിലും അനുഭവപരമായി തെളിയിച്ചു ഇൻസ്ട്രക്ടർക്ക് വിദ്യാർത്ഥികളുമായി കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിയുമെങ്കിൽ എക്സിറ്റ് സർവേയുടെ ഉദ്ദേശ്യം വിശദീകരിക്കുക ഫീഡ്ബാക്ക് ഡാറ്റ അതിന്റെ എല്ലാ ഗൌരവത്തിലും എടുക്കുമെന്നും കോഴ്സ് ഡെലിവറി മെച്ചപ്പെടുത്തലുകൾ ആസൂത്രണം ചെയ്യാൻ ഉപയോഗിക്കുമെന്നും വിദ്യാർത്ഥികൾക്ക് ഉറപ്പുനൽകുന്നുവെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഇത് ഗൌരവമായി കാണുകയും കൂടുതൽ സാധുവായ ഡാറ്റ നൽകുകയും ചെയ്യും കോഴ്സ് എക്സിറ്റ് സർവേ ഡാറ്റയുടെ നല്ല ഉപയോഗത്തിന്റെ ചില സാധാരണ ഉദാഹരണങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവതരിപ്പിച്ചാൽ ഇത് സഹായകരമാകും ഒരുപക്ഷേ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ചിലതരം കേസ് പഠനങ്ങൾ മുൻ വർഷങ്ങളിലെന്നപോലെ അവർക്ക് എങ്ങനെയുള്ള ഫീഡ്ബാക്ക് ഡാറ്റ ലഭിച്ചു കോഴ്സിന്റെ ഡെലിവറി മെച്ചപ്പെടുത്തുന്നതിന് അവർ ആ ഡാറ്റ എങ്ങനെ ഉപയോഗിച്ചു നിർദ്ദിഷ്ട ഉദാഹരണങ്ങൾപൊതു തത്ത്വത്തിൽ അല്ല എന്നാൽ ഒരു നിർദ്ദിഷ്ട കോഴ്സ് നിർദ്ദിഷ്ട ഫീഡ്ബാക്ക് തുടർന്നുള്ള വർഷങ്ങളിൽ നടപ്പിലാക്കിയ നിർദ്ദിഷ്ട മെച്ചപ്പെടുത്തലുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് എക്സിറ്റ് സർവേ ഡിപ്പാർട്ട്മെന്റിന്റെ ഗുരുതരമായ കാര്യമാണെന്നു അത്തരം കേസ് പഠനങ്ങൾ വിദ്യാർത്ഥികളെ ബോധ്യപ്പെടുത്താൻ സഹായിക്കും കോഴ്സ് എക്സിറ്റ് സർവേയുടെ നല്ല ഉപയോഗത്തിന്റെ ചില സാധാരണ ഉദാഹരണങ്ങൾ എച്ച്ഒഡി അല്ലെങ്കിൽ ചില മുതിർന്ന ഫാക്കൽറ്റികൾക്ക് വിദ്യാർത്ഥികൾക്ക് അവതരിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇത് വളരെ സഹായകരമാകും ഇത് ശരിക്കും സഹായകരമാകുന്നതിന് അവതരിപ്പിച്ച കേസ് പഠനങ്ങൾ വളരെ വ്യക്തമായിരിക്കണം കൃത്യമായി ഏത് കോഴ്സ് കൃത്യമായി ഏത് തരത്തിലുള്ള ഫീഡ്ബാക്ക് ഏത് തരത്തിലുള്ള മെച്ചപ്പെടുത്തലുകൾ എന്നിവ ആ ഫീഡ്ബാക്ക് നോക്കുന്നതിലൂടെ പ്രത്യേകമായി സംഭവിച്ചു വാസ്തവത്തിൽ സാധുവായ ഡാറ്റ ലഭിക്കുന്നതിന് ഒരാൾ നിരവധി സമീപനങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ ഗുണനിലവാരമില്ലാത്ത സർവേ ഡാറ്റ ലഭിക്കുന്നത് ഈ പ്രക്രിയയുടെ മുഴുവൻ ഉദ്ദേശ്യത്തെയും നിരാകരിക്കുന്നു ഇത് പ്രായോഗിക ഉപയോഗമില്ലാത്ത ഡോക്യുമെന്റേഷനുകളിൽ ഒന്നായി മാറും ഞങ്ങൾക്ക് സാധുവായ സർവേ ഡാറ്റ ലഭിച്ചില്ലെങ്കിൽ മുഴുവൻ പ്രക്രിയയും ഉദ്ദേശ്യവും നിരസിക്കപ്പെടും ഈ പ്രശ്നങ്ങൾ ബോധപൂർവ്വം പരിഗണിക്കുക മുൻകൂട്ടി ആസൂത്രണം ചെയ്യുകയും കോഴ്സ് എക്സിറ്റ് സർവേ ഫോം രൂപകൽപ്പന ചെയ്യുകയും ആ സർവേ ഫോം അഡ്മിനിസ്റ്റർ ചെയ്യുകയും സാധ്യമായ ഏറ്റവും വലിയ സാധുവായ സർവേ ഡാറ്റ നേടാൻ ശ്രമിക്കുകയും വേണം ഫോമിന്റെ യഥാർത്ഥ രൂപകൽപ്പന ഉപയോഗിക്കേണ്ട സമീപനങ്ങൾ പലതരം ഡിസൈൻ സമീപനങ്ങൾ സ്വയം രൂപപ്പെടുത്തുന്നു സാഹിത്യത്തിൽ ലഭ്യമാണ് ഫോം രൂപകൽപ്പന ചെയ്യുന്നതിനുള്ള സവിശേഷമായ മാർഗം ഇല്ല സർവേ ഫോം സംബന്ധിച്ച ഒരു ചോദ്യത്തിനും അതുല്യമായ ഉത്തരമില്ല ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു സാമ്പിൾ ഫ്രെയിം വർക്ക് മാത്രമാണ് നിങ്ങൾക്ക് സാഹിത്യത്തിൽ തിരയാനും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പരീക്ഷിക്കാനും നിങ്ങളുടെ ഉദ്ദേശ്യങ്ങൾക്കും സന്ദർഭത്തിനും ഏറ്റവും അനുയോജ്യമായ രൂപകൽപ്പനയിൽ എത്തിച്ചേരാനും കഴിയും ചോദ്യങ്ങൾ സാധാരണയായി നാല് വശങ്ങൾ ഉൾക്കൊള്ളുന്നു കോഴ്സ് മാനേജുമെന്റ് പഠന അന്തരീക്ഷം കോഴ്സ് ഫലങ്ങൾ ഇൻസ്ട്രക്ടർ സവിശേഷതകൾ കോഴ്സ് എക്സിറ്റ് സർവേ ഫോം ഇൻസ്റ്റിറ്റ്യൂട്ട് വൈഡ് ഫാക്കൽറ്റി മൂല്യനിർണ്ണയ ഫോമിലേക്ക് സംയോജിപ്പിക്കുകയാണെങ്കിൽ ഈ ചോദ്യങ്ങളിൽ ചിലത് അനാവശ്യമായി മാറിയേക്കാം ഉദാഹരണത്തിന് ഇൻസ്റ്റിറ്റ്യൂട്ട് വൈഡ് സർവേ ഫോമിന്റെ വിദ്യാർത്ഥിദൃഷ്ടി അനുസരിച്ച് ഫാക്കൽറ്റി മൂല്യനിർണ്ണയത്തിന്റെ ഭാഗമായി ഇൻസ്ട്രക്ടർ സവിശേഷതകൾ ഇതിനകം ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവ ഇവിടെ ആവർത്തിക്കേണ്ടതില്ല അടിസ്ഥാനപരമായി പ്രത്യേകമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഞങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ആശയങ്ങൾ പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വളരെ വിശാലമായ സാമ്പിൾ ഫ്രെയിം വർക്കാണ് സാധാരണയായി ചോദ്യങ്ങൾക്ക് 1 മുതൽ 5 വരെ സ്കെയിലിൽ വിദ്യാർത്ഥികൾ ഉത്തരം നൽകുന്നു മറ്റ് സ്കെയിലുകൾ സാധ്യമാണ് പക്ഷേ ഇത് ഏറ്റവും ജനപ്രിയമാണ് 1 ഏറ്റവും നെഗറ്റീവ് പ്രതികരണവും 5 ഏറ്റവും നല്ല പ്രതികരണവുമാണ് ചില സ്ഥാപനങ്ങൾ 1 2 3 എന്ന സ്കെയിൽ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂവെങ്കിലും ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ 0 ഉം ഉപയോഗിക്കാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും ഇത് വളരെ സാധാരണമാണ് എന്നാൽ 1 മുതൽ 5 വരെ വളരെ സാധാരണമാണ് 0 മുതൽ 5 വരെയും സാധാരണമാണ് വിദ്യാർത്ഥികൾക്ക് ഒരു അപ്പീൽ നൽകി ഫോം ആരംഭിക്കാം സാധുവായ ഡാറ്റ ലഭിക്കുന്നതിനുള്ള വസ്തുത ഇവിടെ ചിത്രത്തിലേക്ക് വരുന്നു "കോഴ്സിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പരിഗണനയുള്ള ഫീഡ്ബാക്ക് ബന്ധപ്പെട്ട അധ്യാപകനും പഠന നിലവാരം ഉയർത്തുന്നതിൽ വകുപ്പിനും വളരെയധികം വിലമതിക്കും നിങ്ങളുടെ ഗുണനിലവാര സമയത്തിന് നന്ദി " ഇത് തികച്ചും നേരെയുള്ളതും ലളിതവുമായ ആശയം പോലെ തോന്നാം എന്നാൽ കോഴ്സ് എക്സിറ്റ് സർവേ ഫോമിലേക്കുള്ള അത്തരമൊരു തുടക്കം വിദ്യാർത്ഥികളുടെ ധാരണയിൽ നല്ല സ്വാധീനം ചെലുത്തുന്നുവെന്ന് അനുഭവപഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ച് ഫോം ആരംഭിക്കുന്നതാണ് നല്ലത് തുടക്കത്തിൽ ഞങ്ങൾക്ക് 2 3 ചോദ്യങ്ങളുണ്ടാകാം അത് മൊത്തത്തിലുള്ള കാഴ്ച്ചപ്പാടാണ് അത് ഇങ്ങനെയാകാം പൊതുവായി കോഴ്സ് റേറ്റുചെയ്യുക 1 മുതൽ 5 വരെ കോഴ്സ് ഉള്ളടക്കം റേറ്റുചെയ്യുക ഈ കോഴ്സിനെ പരാമർശിച്ച് ഇൻസ്ട്രക്ടറെ റേറ്റുചെയ്യുക ഏത് കോഴ്സ് എക്സിറ്റ് സർവേയ്ക്കും ഇത് പൊതുവായേക്കാം മാത്രമല്ല ഇവ വളരെ വിശാലവും പൊതുവായതുമായ വിഹഗവീക്ഷണമാണ് കോഴ്സ് എക്സിറ്റ് സർവേയുടെ ഓരോ വശങ്ങളുമായി ബന്ധപ്പെട്ട് സാധ്യമായ ചില ചോദ്യങ്ങൾ നമുക്ക് നോക്കാം കോഴ്സ് മാനേജുമെന്റിനെ സംബന്ധിച്ച് കോഴ്സ് ഓർഗനൈസേഷൻ പോലുള്ള ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയും അത് എത്രത്തോളം മികച്ചതായിരുന്നു വീണ്ടും 1 മുതൽ 5 വരെ സ്കെയിലിൽ ആന്തരിക പരിശോധനകൾ ആന്തരിക പരിശോധനകൾ എല്ലാ സിഒകളെയും ഉൾക്കൊള്ളുന്നുണ്ടോ മാത്രമല്ല അവ വിദ്യാർത്ഥികൾക്ക് സൌകര്യപ്രദമായ രീതിയിൽ ഉൾക്കൊള്ളുകയും ചെയ്തു ഉചിതമായ സമയത്ത് പരിശോധനകൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടോ ആന്തരിക പരിശോധനകൾക്ക് നൽകിയ സമയം മതിയോ ടെസ്റ്റുകളുടെ ഓർഗനൈസേഷൻ സിഒകളുടെ കവറേജ് സമയം ഷെഡ്യൂൾ തുടങ്ങി എല്ലാ പ്രശ്നങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ എക്സ്ട്രാക്റ്റുചെയ്യുന്നതിന് ഞങ്ങൾക്ക് 3 4 ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും ക്വിസുകളുടെ ഗുണനിലവാരം ക്വിസുകൾ പ്രസ്താവിച്ച CO കളുമായി യോജിക്കുന്നുണ്ടോ ക്വിസുകൾ നടക്കുന്ന സമയം എന്താണ് ക്വിസിന് എത്ര സമയം നൽകി പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അസൈൻമെന്റുകളുടെ ഉപയോഗക്ഷമത ഇത് വീണ്ടും രസകരവും മൂല്യവത്തായതുമായ ഡാറ്റ ഞങ്ങൾക്ക് നൽകും വാസ്തവത്തിൽ പല സ്ഥാപനങ്ങളിലും പ്രായോഗിക അനുഭവത്തിൽ നിന്ന് നൽകിയിട്ടുള്ള അസൈൻമെന്റുകളെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് വളരെ കുറഞ്ഞ അഭിപ്രായമുണ്ട് വിദ്യാർത്ഥികളുമായുള്ള ആശയവിനിമയത്തിനിടയിൽ രണ്ട് കോളേജുകളിൽ ഈ അസൈൻമെന്റുകൾക്ക് ഒരു ലക്ഷ്യവുമില്ലെന്ന് അവർ വ്യക്തമായി പറഞ്ഞു പ്രാഥമികമായി ഇത് വെബിൽ എളുപ്പത്തിൽ തിരയാൻ കഴിയുന്ന ഒരു വിഷയമാണ് മാത്രമല്ല അസൈൻമെന്റ് സമർപ്പിക്കുന്നതിന് ചില കോപ്പി പേസ്റ്റ് മതിയാകും ഏതെങ്കിലും അർത്ഥവത്തായ രീതിയിൽ ഇൻസ്ട്രക്ടർ അസൈൻമെന്റിനെ ശരിക്കും വിലയിരുത്തുന്നില്ല അസൈൻമെന്റുകൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകന്റെയും കാഴ്ചപ്പാടിൽ നിന്നും സമയം പാഴാക്കുന്നുവെന്ന് തെളിയിക്കുന്നു അസൈൻമെന്റുകൾ ശ്രദ്ധാപൂർവ്വം രൂപകൽപ്പന ചെയ്യേണ്ടതും അവ വിദ്യാർത്ഥികൾക്ക് ശരിയായ തരത്തിലുള്ള വെല്ലുവിളി നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ് മാത്രമല്ല ക്ലാസ് റൂം ടെസ്റ്റുകളിലോ ക്വിസുകളിലോ വേണ്ടത്ര അഭിസംബോധന ചെയ്യാൻ കഴിയാത്ത ചില സിഒകളെ അവർ അഭിസംബോധന ചെയ്യുകയും വിദ്യാർത്ഥികളുടെ ഉപയോഗത്തെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാട് പ്രകടിപ്പിക്കുകയും വേണം പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഈ നിയമനങ്ങൾ ഇത് വീണ്ടും ഡിപ്പാർട്ട്മെന്റിനും ഇൻസ്ട്രക്ടർക്കും രസകരമായ ഒരു അഭ്യാസവും ആയിരിക്കും മൊത്തം അസൈൻമെന്റുകളുടെ എണ്ണം നടത്തിയ ക്വിസുകൾ നടത്തിയ ടെസ്റ്റുകൾ കൂടാതെ സെമസ്റ്ററിലുടനീളം നടക്കുന്ന മറ്റേതെങ്കിലും തരത്തിലുള്ള വിലയിരുത്തലുകൾ ഒരുമിച്ച് എടുത്താൽ ജോലിഭാരത്തെക്കുറിച്ച് വിദ്യാർത്ഥിക്ക് എന്തുതോന്നുന്നു അതും ഒരു ഉപയോഗപ്രദമായ ചോദ്യമാകാം ഇവ സാമ്പിൾ ചോദ്യങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് വ്യത്യസ്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാം കൂടുതലും കുറവും സാധ്യമാണ് പഠന പരിതസ്ഥിതി ഇവിടെയുള്ള ചില ചോദ്യങ്ങൾ ഇൻസ്ട്രക്ടർ സവിശേഷതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇവ യഥാർത്ഥത്തിൽ ഇൻസ്ട്രക്ടർ സ്വഭാവസവിശേഷതകളിലേക്ക് പോകണമെന്ന് ഒരാൾക്ക് വാദിക്കാം അടിസ്ഥാനപരമായി ഈ വിഭാഗത്തിന് കീഴിലോ ഇൻസ്ട്രക്ടർ സവിശേഷതകളുടെ വിഭാഗത്തിലോ ഉൾപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നത് പരിഹരിക്കേണ്ട പ്രശ്നങ്ങളാണ് പക്ഷേ ഇവ പരിഗണിക്കേണ്ട ചില പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥികളും ഇൻസ്ട്രക്ടറും തമ്മിലുള്ള പോസിറ്റീവ് ആശയവിനിമയം നിലവിലുണ്ട് വിശദീകരണത്തിനായി ഇൻസ്ട്രക്ടറെ തടസ്സപ്പെടുത്താൻ വിദ്യാർത്ഥികളെ എപ്പോഴും അനുവദിച്ചിരുന്നു ഇത് വളരെ പ്രധാനമാണ് കാരണം ചില ഇൻസ്ട്രക്ടർമാർ വിദ്യാർത്ഥികളിൽ നിന്നുള്ള തടസ്സങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല പ്രഭാഷണം മുഴുവൻ പൂർത്തിയാക്കി വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവാദമുണ്ട് അത് പഠനത്തിന് വളരെ അനുയോജ്യമല്ലായിരിക്കാം വ്യക്തത തേടുന്നതിന് വിദ്യാർത്ഥിയെ ഇൻസ്ട്രക്ടറെ തടസ്സപ്പെടുത്താൻ എല്ലായ്പ്പോഴും അനുവദിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഇത് സഹായകരമാണ് ക്ലാസ് റൂം ചർച്ചകൾ പ്രോത്സാഹിപ്പിക്കുകയും നന്നായി മോഡറേറ്റ് ചെയ്യുകയും ചെയ്തു ചർച്ചകൾ പ്രധാനമാണെങ്കിലും ശരിയായ മോഡറേഷൻ നടക്കുന്നുവെന്ന് ഇൻസ്ട്രക്ടർ ഉറപ്പുവരുത്തേണ്ടതുണ്ട് അല്ലാത്തപക്ഷം ചർച്ചകൾ ദിശമാറി പോകുകയും ക്ലാസ് റൂം സമയം പാഴാക്കുകയും ചെയ്യും ആവശ്യമായ പഠന ഉപാധികൾ എളുപ്പത്തിൽ ലഭ്യവും ആക്സസ് ചെയ്യാവുന്നതുമായിരുന്നു ലബോറട്ടറി ഉപകരണങ്ങൾ നന്നായി പരിപാലിക്കുകയും ആവശ്യമായ പരീക്ഷണങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവയും ആയിരുന്നു ലാബ് സിദ്ധാന്തവുമായി സംയോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അല്ലാത്തപക്ഷം ലബോറട്ടറി അഭ്യാസങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രശ്നങ്ങളുണ്ട് ലബോറട്ടറി കോഴ്സുകൾ നോക്കുമ്പോൾ അടുത്ത യൂണിറ്റിൽ ഈ പ്രശ്നങ്ങൾ ഞങ്ങൾ കൂടുതൽ വിശദമായി ചർച്ച ചെയ്യും എക്സിറ്റ് സർവേ ഫോം രൂപകൽപ്പന ചെയ്യുന്നതിലെ അധിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് കോഴ്സ് ഫലങ്ങൾ കോഴ്സിന്റെ ഫലങ്ങൾ കോഴ്സിന്റെ ആദ്യ ക്ലാസിൽ തന്നെ ചർച്ചചെയ്യപ്പെട്ടു കോഴ്സ് ഫലങ്ങൾ വ്യക്തമായിരുന്നു നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കഴിവുകളിൽ നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഇത് ഒരു ധാരണ മാത്രമാണ് എന്ന് ശ്രദ്ധിക്കുക വാസ്തവത്തിൽ ആവശ്യമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഈ വിദ്യാർത്ഥികൾക്ക് സാധിക്കുമോയെന്ന് മറ്റ് വിലയിരുത്തൽ ഉപകരണങ്ങളിലെ അവരുടെ പ്രകടനത്തിൽ നിന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു ക്ലാസ് ടെസ്റ്റുകൾ ക്വിസുകൾ അസൈൻമെന്റുകൾ ഇവിടെ ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ധാരണ നേടാൻ ശ്രമിക്കുന്നു ആ കഴിവുകളുമായി ബന്ധപ്പെട്ട് അവർക്ക് എങ്ങനെ തോന്നുന്നു അതുകൊണ്ടാണ് ഇത് സിഒകളെ കണക്കുകൂട്ടുന്നതിനുള്ള പരോക്ഷമായ മാർഗ്ഗമാകുന്നത് ഇത് വിദ്യാർത്ഥികളുടെ ധാരണയുമായി കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നു സിഒകൾ നേടുന്നതിന് പ്രബോധന പ്രവർത്തനങ്ങൾ സഹായിച്ചു അതായത് പുതുക്കിയ ബ്ലൂംസ് ടാക്സോണമിയിലെ വൈജ്ഞാനിക നിലവാരത്തെയും വിജ്ഞാന വിഭാഗത്തെയും സംബന്ധിച്ച് അവ സിഒകളുമായി വിന്യസിക്കപ്പെട്ടു ഓരോ സിഒയ്ക്കും വേണ്ടി നീക്കിവച്ചിരിക്കുന്ന സമയം പര്യാപ്തമായിരുന്നു ഇത് അടുത്ത ചോദ്യവുമായി ബന്ധപ്പെട്ടതിനാൽ ഇത് ആവശ്യമാണ് കവറേജ് വേഗത ഉടനീളം സുഖകരമായിരുന്നു ഇവ രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു കവറേജിന്റെ വേഗത ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്തിട്ടില്ലെങ്കിൽ പലപ്പോഴും ഇത് ശ്രദ്ധാപൂർവ്വം ആസൂത്രണം ചെയ്യാത്തതാണ് സംഭവിക്കുന്നത് പ്രാരംഭ സിഒകൾക്ക് വളരെക്കാലം ലഭിക്കുന്നു മൊത്തം സമയത്തിന്റെ അനാവശ്യ അനുപാതവും അവസാനം വേഗത പെട്ടെന്ന് വളരെയധികം കൂടുന്നു പിന്നീടുള്ള സിഒകളും അത് നന്നായി കവർ ചെയ്യതിട്ടില്ല കവറേജിന്റെ വേഗത ഉടനീളം സുഖകരമാണോ എന്നും അനുബന്ധ ചോദ്യം ഓരോ സിഒയ്ക്കും വേണ്ടി നീക്കിവച്ചിരിക്കുന്ന സമയം പര്യാപ്തമാണോ എന്നും അറിയേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ ഈ രണ്ട് അനുബന്ധ ചോദ്യങ്ങൾ അറിയേണ്ടത് പ്രധാനമാണ് പ്രഖ്യാപിത സിഒകൾക്കും കഴിവുകൾക്കും വിലയിരുത്തലുകൾ പ്രസക്തമായിരുന്നു അതായത് വിലയിരുത്തൽ സിഒകളുമായി യോജിക്കുന്നു കോഴ്സ് ഫലങ്ങൾ നിർദ്ദേശം വിലയിരുത്തൽ എന്നിവ വളരെ പ്രധാനമാണ് അവയെല്ലാം പരസ്പരം യോജിക്കുന്നു വിദ്യാർത്ഥികളുടെ നല്ല പഠനത്തിന് അത് ആവശ്യമാണ് മുമ്പത്തെ മൊഡ്യൂളിൽ ചർച്ചചെയ്തു മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വിദ്യാർത്ഥികളുടെ ധാരണ നേടണം വിലയിരുത്തലുകൾ പ്രസ്താവിച്ച സിഒകൾക്ക് പ്രസക്തമാണോ എന്ന് സിഒകൾക്ക് പ്രസക്തമായ ഉദാഹരണങ്ങൾ വിശദമായി പ്രവർത്തിക്കുന്നു മാത്രമല്ല അവ പരീക്ഷകൾക്കും ഉപയോഗപ്രദമായിരുന്നു കാരണം പരീക്ഷകളും അത്യാവശ്യമാണ് അവ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പന്തയഇനങ്ങളാണ് അതിനാൽ അറിയേണ്ടത് പ്രധാനമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഒരു പൊതു ചോദ്യം ചോദിക്കാം ഓരോ സിഒയും അധീനമാക്കുന്നതിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കംഫർട്ട് ലെവലുമായി ബന്ധപ്പെട്ട് റേറ്റുചെയ്യുക അടിസ്ഥാനപരമായി വളരെ കുറഞ്ഞ സുഖസൌകര്യത്തിൽ നിന്ന് ഉയർന്ന സുഖസൌകര്യങ്ങളിലേക്ക് ഓരോ CO യും റേറ്റുചെയ്യാൻ അവരോട് ആവശ്യപ്പെടാം ഇവിടെ ഞങ്ങൾ കോഴ്സിന് 8 CO ഉള്ള ഒരു സാമ്പിൾ കാണിച്ചു യഥാർത്ഥ സംഖ്യകൾ എന്തുതന്നെയായാലും നമുക്ക് അവിടെ എഴുതാം ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് തെളിയിക്കുന്ന ഏതെങ്കിലും പ്രത്യേക സിഒ അല്ലെങ്കിൽ ഒരു ചെറിയ സബ് സിഒ ഉണ്ടോയെന്നതാണ് ഇതിന്റെ ആശയം അടിസ്ഥാനപരമായി പൊതുവെ സ്റ്റിക്കി പോയിന്റുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ സിഒകളുടെ ഒരു ചെറിയ ഉപസെറ്റുമായി ബന്ധപ്പെട്ട് മിക്ക വിദ്യാർത്ഥികൾക്കും ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അടുത്ത തവണ കോഴ്സ് നടപ്പിലാക്കുമ്പോൾ ആ സിഒകളെ ബഹുമാനിച്ച് എന്തെങ്കിലും ചെയ്യേണ്ടി വരും ആ ആശയം ലഭിക്കുന്നതിന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിക്കാം ഇൻസ്ട്രക്ടർ സ്വഭാവസവിശേഷതകൾ വിദ്യാർത്ഥികളുടെ ഫാക്കൽറ്റി മൂല്യനിർണ്ണയത്തിനായി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് വൈഡ് ഫോം ഉണ്ടെങ്കിൽ ആ ഫോം ഈ വശങ്ങളെ ഉൾക്കൊള്ളുന്നുവെങ്കിൽ കോഴ്സ് എക്സിറ്റ് സർവേയിൽ ഞങ്ങൾ അവ ആവർത്തിക്കേണ്ടതില്ല എന്നിരുന്നാലും ഈ സ്വഭാവസവിശേഷതകളിൽ ചിലത് പ്രധാനമാണ് സാധ്യമായ ചോദ്യങ്ങൾ ഇവയാണ് ഇൻസ്ട്രക്ടർക്ക് ഉള്ളടക്കത്തിൽ വൈദഗ്ദ്ധ്യം ഉണ്ടായിരുന്നു എല്ലാ വിദ്യാർത്ഥികളെയും നിഷ്പക്ഷമായി പരിഗണിച്ചു ഇൻസ്ട്രക്ടർക്ക് മികച്ച ആശയവിനിമയ കഴിവുകൾ ഉണ്ടായിരുന്നു ക്ലാസ് മുറിയിൽ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ഇൻസ്ട്രക്ടർ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചു സാങ്കേതിക സംശയങ്ങൾ നന്നായി വ്യക്തമാക്കി ഇൻസ്ട്രക്ടറുടെ പൊതുവായ മനോഭാവം തികച്ചും പിന്തുണയ്ക്കുന്നതായിരുന്നു നിങ്ങൾ കാണുകയാണെങ്കിൽ അടിസ്ഥാനപരമായി ഇൻസ്ട്രക്ടർ സ്വഭാവസവിശേഷതകൾ മൂന്ന് വശങ്ങൾ നോക്കുന്നു ഒന്ന് സാങ്കേതിക കഴിവ് അറിവ് മറ്റൊന്ന് മനോഭാവം വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്ന പിന്തുണാ മനോഭാവം മൂന്നാമത്തേത് ക്ലാസ് പെരുമാറ്റത്തിലെ ഔചിത്യത്തിന്റെയും അച്ചടക്കത്തിന്റെയും പരിപാലനത്തിലാണ് അതിനാൽ ഇൻസ്ട്രക്ടർ വ്യക്തിത്വത്തിന് മൂന്ന് മാനങ്ങളുണ്ട് ഈ മൂന്ന് തലങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും സാങ്കേതിക കഴിവ് പിന്തുണാ മനോഭാവം സംഘടിതവും അച്ചടക്കമുള്ളതുമായ ക്ലാസ്സിന്റെ പെരുമാറ്റം യഥാർത്ഥ സർവേ ഫോം രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ മറ്റ് പല പ്രശ്നങ്ങളും പരിഹരിക്കേണ്ടതുണ്ട് ആകെ ചോദ്യങ്ങളുടെ എണ്ണം അന്തിമമാക്കിയിരിക്കണം ചോദ്യങ്ങളുടെ എണ്ണം വളരെ ചെറുതാണെങ്കിൽ ഞങ്ങൾക്ക് മതിയായ സാധുവായ ഡാറ്റ ലഭിച്ചേക്കില്ല മറുവശത്ത് വളരെയധികം ചോദ്യങ്ങളുണ്ടെങ്കിൽ ക്ഷീണം ഉണ്ടാവുകയും വിദ്യാർത്ഥികൾ സാധുവായ ഡാറ്റ നൽകാതിരിക്കുകയും ചെയ്യും സർവേ ഫോമിന്റെ ശരിയായ ദൈർഘ്യത്തെക്കുറിച്ച് നിങ്ങൾ പരീക്ഷിക്കുകയും നിങ്ങളുടെ സന്ദർഭത്തിന് അനുയോജ്യമായ ശരിയായ നീളത്തിൽ എത്തിച്ചേരുകയും വേണം കോഴ്സ് എക്സിറ്റ് സർവേ ഫോം രൂപകൽപ്പന ചെയ്യുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് വൈഡ് ഫോം നിലവിലുണ്ടെങ്കിൽ അത് കണക്കിലെടുക്കണം ഇത് സമന്വയിപ്പിക്കണമെങ്കിൽ മൊത്തം ചോദ്യങ്ങളുടെ എണ്ണവും വ്യത്യസ്ത ദൃഷ്ടികളിലേക്ക് അവ അനുവദിക്കുന്നതും സംബന്ധിച്ച് ഉചിതമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ വിഭാഗത്തിനും കീഴിലുള്ള ഇനങ്ങളുടെ എണ്ണം കോഴ്സ് മാനേജുമെന്റ് കോഴ്സ് ഫലങ്ങൾ ഇൻസ്ട്രക്ടർ സവിശേഷതകൾ ഇതുപോലെ ഓരോ വിഭാഗത്തിനും നിങ്ങൾ എത്ര ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു അതും അന്തിമമാക്കേണ്ടതുണ്ട് ഉൾപ്പെടുത്തിയ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് ഫോം സന്തുലിതമായിരിക്കണം വിദ്യാർത്ഥികളിൽ നിന്നുള്ള പതിവ് പ്രതികരണങ്ങൾ തടയുന്നതിന് വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ഇനങ്ങൾ ഇടകലർന്നേക്കാം ഇൻസ്ട്രക്ടറുടെ സ്വഭാവസവിശേഷതകളെക്കുറിച്ച് എട്ട് ചോദ്യങ്ങൾ ഒന്നിനുപുറകെ ഒന്നായി വരുന്നത് പോലെ ആദ്യത്തെ 3 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയ ശേഷം വിദ്യാർത്ഥികൾക്ക് അതേ രീതി പിന്തുടർന്ന് പതിവ് മെക്കാനിക്കൽ രീതിയിൽ ബാക്കിയുള്ളവ പൂരിപ്പിക്കാം ചിലപ്പോൾ ഇത് സാധ്യമാണ് ചില കോഴ്സ് എക്സിറ്റ് സർവേ ഫോമുകൾ ഈ ചോദ്യങ്ങൾ കൂട്ടിക്കലർത്തുന്നു കോഴ്സ് ഫലങ്ങളെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ തുടർന്ന് ഇൻസ്ട്രക്ടറുടെ സവിശേഷതകളെക്കുറിച്ച് കുറച്ച് ചോദ്യങ്ങൾ കോഴ്സ് ഫലങ്ങളെക്കുറിച്ച് വീണ്ടും ഒരു ചോദ്യം ഇതുപോലെ വിദ്യാർത്ഥികളിൽ നിന്നുള്ള പതിവ് പ്രതികരണങ്ങൾ തടയുന്നതിന് അവർക്ക് ഈ ചോദ്യങ്ങൾ കൂട്ടിക്കലർത്താനാകും ഇത് സാധ്യമാണ് സർവേ ഫോം എങ്ങനെ രൂപകൽപ്പന ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് സിഒകളുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ടചോദ്യങ്ങൾ ചോദിക്കാനും കഴിയും സിഒകളുമായി ബന്ധപ്പെട്ട് പോലും എക്സിറ്റ് സർവേയിലെ ചോദ്യങ്ങൾ പൊതുവായേക്കാം ഉദാഹരണത്തിന് നമുക്ക് ചോദിക്കാം കോഴ്സിന്റെ തുടക്കത്തിൽ തന്നെ CO കൾ ചർച്ച ചെയ്യപ്പെട്ടു സിഒകൾ നേടുന്നതിന് നിർദ്ദേശങ്ങൾ സഹായകരമായിരുന്നു ഇവ വളരെ പൊതുവായ ചോദ്യങ്ങളാണ് നിർദ്ദിഷ്ട സിഒകളുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട ചോദ്യങ്ങൾക്കും ഞങ്ങൾക്ക് ചോദിക്കാൻ കഴിയും മാത്രമല്ല നിർദ്ദിഷ്ട സിഒകളുമായി ബന്ധപ്പെട്ട് കോഴ്സിന്റെ ഡെലിവറി ആസൂത്രണം ചെയ്യുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ഇത് ഞങ്ങളെ സഹായിക്കും അതിനാൽ സിഒകളുടെ നേട്ടം മെച്ചപ്പെടുത്തുന്നതിനുള്ള വീക്ഷണകോണിൽ നിന്ന് അടുത്ത തവണ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ പ്രത്യേക സിഒകൾക്ക് പ്രത്യേകമായി ചോദ്യങ്ങൾ ചോദിക്കുന്നത് സഹായകരമാകും ചില ചോദ്യങ്ങൾക്ക് വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ സ്റ്റിക്കി പോയിൻറുകൾ തിരിച്ചറിയുന്നതിന് ഇൻസ്ട്രക്ടറെ സഹായിക്കും വിദ്യാർത്ഥികൾക്ക് ഒരേപോലെ ബുദ്ധിമുട്ടുള്ള പ്രദേശങ്ങൾ ഈ ചോദ്യങ്ങളോടുള്ള വിദ്യാർത്ഥികളുടെ പ്രതികരണങ്ങൾ അത്തരം സ്തംഭനം തിരിച്ചറിയാൻ ഇൻസ്ട്രക്ടറെ സഹായിക്കും അത് കൂടുതൽ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്യാൻ കഴിയും മറ്റൊരു രീതിയിൽ അടുത്ത തവണ കോഴ്സ് വാഗ്ദാനം ചെയ്യുമ്പോൾ നിർദ്ദിഷ്ട സിഒകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്റെ മറ്റൊരു ഗുണം പ്രതികരണങ്ങൾ വളരെ ലളിതവും നേരായതുമായ രീതിയിൽ സിഒകൾ നേടുന്നതിനുള്ള പരോക്ഷ കണക്കുകൂട്ടലിനെ അനുവദിക്കും എന്നതാണ് ചോദ്യങ്ങൾ നിർദ്ദിഷ്ട സിഒകളുമായി ബന്ധപ്പെട്ടപ്പോൾ സിഒകളുടെ പരോക്ഷ നേട്ടത്തിന്റെ കണക്കുകൂട്ടൽ വളരെ ലളിതമായിത്തീരുന്നു നിർദ്ദിഷ്ട സിഒകളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഇവയാകാം അൽഗോരിതംസിനെക്കുറിച്ചുള്ള ഒരു കോഴ്സിൽ CO3 എന്ന ഒരു കോഴ്സ് ഫലമുണ്ടെന്ന് കരുതുക അത് ഡിവൈഡ് ആൻഡ് കോൺക്വർ സമീപനവുമായി ബന്ധപ്പെട്ടതാണ് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് ഈ കോഴ്സ് എക്സിറ്റ് സർവേയിൽ ഇൻസ്ട്രക്ടർക്ക് ചോദിക്കാൻ കഴിയുന്ന CO3 ന് മാത്രമായുള്ള ചില ചോദ്യം ഇതായിരിക്കും തന്നിരിക്കുന്ന നിർദ്ദിഷ്ട പ്രശ്നത്തിന് ഡിവൈഡ് ആൻഡ് കോൺക്വർ സാങ്കേതികത ബാധകമാണോ എന്ന് നിങ്ങൾക്ക് നിർണ്ണയിക്കാനാകുമെന്ന് നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസമില്ല 0 മുതൽ വളരെ ആത്മവിശ്വാസമുണ്ട് 5 ഡിവൈഡ് ആൻഡ് കോൺക്വർ സമീപനത്തെ അടിസ്ഥാനമാക്കിയുള്ള തന്നിരിക്കുന്ന അൽഗോരിത്തിന്റെ സമയ സങ്കീർണ്ണത നേടുന്നതിൽ നിങ്ങൾക്ക് സുഖമുണ്ടോ ഒട്ടും സുഖകരമല്ല 0 മുതൽ വളരെ സുഖകരമാണ് 5 സിഒകൾ എത്രത്തോളം കൈവരിക്കുന്നുവെന്നും ഭൂരിഭാഗം വിദ്യാർത്ഥികളും അഭിമുഖീകരിക്കുന്ന ചില സാധാരണ പ്രശ്നങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും അറിയാൻ നിർദ്ദിഷ്ട ഉത്തരങ്ങൾ ഇൻസ്ട്രക്ടറെ സഹായിക്കും മറ്റൊരു ചോദ്യം ഇതായിരിക്കാം മെർജ് സോർട്ട് അൽഗോരിതം വിശദീകരിക്കാമെന്ന് നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ആത്മവിശ്വാസമില്ല 0 മുതൽ വളരെ ഉയർന്ന ആത്മവിശ്വാസം 5 ഒരു പുതിയ പ്രശ്നത്തിനായി ഒരു ഡിവൈഡ് ആൻഡ് കോൺക്വർ അൽഗോരിതം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് വളരെ ആത്മവിശ്വാസത്തോടെ ആത്മവിശ്വാസമില്ല അത്തരം ചോദ്യങ്ങൾക്കുള്ള പ്രതികരണങ്ങൾ നിർദ്ദിഷ്ട സിഒകളുമായി ബന്ധപ്പെട്ട് ഇൻസ്ട്രക്ടർക്ക് വിലയേറിയ ഫീഡ്ബാക്ക് നൽകും പ്രത്യേകിച്ചും CO3 സംബന്ധിച്ച് അതുപോലെ ഓരോ CO യുമായി ബന്ധപ്പെട്ട് തികച്ചും ഉപയോഗപ്രദമായ ഡാറ്റ നേടുന്നതിന് ഞങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും സിഒകളുടെ നേട്ടം പരോക്ഷമായ രീതിയിൽ കണക്കുകൂട്ടാൻ ഈ CO നിർദ്ദിഷ്ട പ്രതികരണങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം പരോക്ഷ രീതി ഉപയോഗിച്ച് CO നേട്ടം കണക്കുകൂട്ടുന്നതും നേരിട്ടുള്ള രീതികളിൽ കണക്കുകൂട്ടിയ CO നേട്ടവുമായി സംയോജിപ്പിക്കുന്നതും മുമ്പത്തെ മൊഡ്യൂളിൽ വിശാലമായി ചർച്ചചെയ്യപ്പെട്ടു പരോക്ഷ രീതി മൂല്യവും നേരിട്ടുള്ള രീതികളിൽ കണക്കാക്കിയ മൂല്യവും സാധാരണയായി 10 മുതൽ 90 വരെയുള്ള അനുപാതത്തിൽ സംയോജിപ്പിക്കുന്നതായി ഞങ്ങൾ കണ്ടു അതായത് പരോക്ഷ രീതി ഉപയോഗിച്ച് കണക്കാക്കിയ മൂല്യത്തിന് സാധാരണയായി 10 ശതമാനത്തിൽ കൂടുതൽ വെയിറ്റേജ് നൽകില്ല നേരിട്ടുള്ള രീതികൾ ഉപയോഗിച്ച് കണക്കാക്കിയ മൂല്യം ആന്തരിക പരിശോധനകൾ ക്വിസുകൾ സെമസ്റ്റർ അവസാന പരീക്ഷാ അസൈൻമെന്റുകൾ ഇതിന് കൂടുതൽ വെയിറ്റേജ് നൽകുന്നു സാധാരണയായി 90 കോഴ്സ് എക്സിറ്റ് സർവേ ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് പരോക്ഷ രീതി കണക്കാക്കുന്നത് CO കൾക്ക് പ്രത്യേകമായി ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പരോക്ഷ നേട്ടം കണക്കാക്കുന്നതിന് കോഴ്സ് എക്സിറ്റ് സർവേ സഹായിക്കുന്നു ഇത് അടിസ്ഥാനപരമായി വിദ്യാർത്ഥികളുടെ ശരാശരി ധാരണയാണ് മാത്രമല്ല ഇത് പരോക്ഷ നേട്ട മൂല്യമായി ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ഇനിപ്പറയുന്നവ അനുമാനിക്കുക ഒരു കോഴ്സിൽ CO3 ഒരു നിർദ്ദിഷ്ട ഫലവുമായി ബന്ധപ്പെട്ട നാല് ചോദ്യങ്ങളുണ്ടായിരുന്നു 65 വിദ്യാർത്ഥികൾ പ്രതികരിച്ചു ചോദ്യത്തിന് 1 6 ആളുകൾ ഇത് 1 ന്റെ മൂല്യം വളരെ കുറവാണ് എന്ന് റേറ്റുചെയ്തു 54 ഇതിനെ 4 ന്റെ ഉയർന്ന മൂല്യമായി റേറ്റുചെയ്തു 5 അതിനെ 5 ഏറ്റവും ഉയർന്ന മൂല്യം എന്ന് റേറ്റുചെയ്തു ചോദ്യം 1 നോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ശരാശരി റേറ്റിംഗ് 6 x 1 54 x 4 5 x 5 ആകെ 65 കൊണ്ട് ഹരിക്കുന്നു 3 അതുപോലെ തന്നെ 2 3 4 ചോദ്യങ്ങളുടെ ശരാശരി റേറ്റിംഗ് യഥാക്രമം 4 2 3 9 2 6 എന്നിവയാണെന്ന് കരുതുക നാല് ചോദ്യങ്ങളുടെയും മൂല്യങ്ങളുടെ ശരാശരി 3 8 4 2 3 6 ഇവയുടെ ശരാശരി 3 6 പരമാവധി സാധ്യമായ മൂല്യം സാധ്യമായ ഏറ്റവും മികച്ച മൂല്യം 5 ആണ് ഞങ്ങൾ CO3 ന്റെ നേട്ടം 3 6 ആയി 5 കൊണ്ട് ഹരിക്കുന്നു അതായത് 72 ശതമാനം കോഴ്സ് ഫലങ്ങളുടെ പരോക്ഷ നേട്ടം കണക്കാക്കുന്നതിനുള്ള വളരെ ലളിതമായ മാർഗ്ഗം കാരണം ഇത് 1090 അനുപാതത്തിൽ നേരിട്ടുള്ള നേട്ടവുമായി സംയോജിപ്പിക്കണം 10 ശതമാനം 90 ശതമാനം നിർദ്ദിഷ്ട ഉത്തരങ്ങൾക്ക് പുറമേ അവയുടെ ശരാശരി മൂല്യങ്ങളും നിങ്ങൾക്ക് ഒരുതരം സൂചന നൽകുന്നു ഉദാഹരണത്തിന് ആദ്യ ചോദ്യത്തിന് ശരാശരി മൂല്യം 3 8 ആയിരുന്നു രണ്ടാമത്തേതിന് ഇത് 4 2 ആയിരുന്നു മൂന്നാമത്തെ ചോദ്യത്തിന് ഇത് 3 9 ആയിരുന്നു എന്നാൽ നാലാമത്തെ ചോദ്യത്തിന് ശരാശരി മൂല്യം 2 6 മാത്രമായിരുന്നു അതിനർത്ഥം ഭൂരിപക്ഷം വിദ്യാർത്ഥികളും സുഖകരമല്ലാത്ത നിർദ്ദിഷ്ട കഴിവാണ് ഇത് തന്നിരിക്കുന്ന സിഒ വികസിപ്പിക്കുന്ന കഴിവുകളുമായി ചോദ്യങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അടുത്ത തവണ കോഴ്സ് ഡെലിവർ ചെയ്യുമ്പോൾ അടുത്തറിയാൻ ആവശ്യമായ കഴിവുകൾ ഏതെല്ലാമാണെന്ന് ഇൻസ്ട്രക്ടർക്ക് സൂചനകൾ നൽകാനും ഈ മൂല്യങ്ങൾക്ക് കഴിയും പരോക്ഷമായ രീതിയിൽ സിഒകളുടെ നേട്ടം കണക്കുകൂട്ടുന്നതിനുള്ള ഒരു ലളിതമായ മാർഗമാണിത് മറ്റെല്ലാ സിഒകൾക്കും സമാനമായ കണക്കുകൂട്ടലുകൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും അഭ്യാസം നിങ്ങളുടെ കോഴ്സിനായി ഒരു കോഴ്സ് എക്സിറ്റ് സർവേ ഫോം രൂപകൽപ്പന ചെയ്യുക ഈ വ്യായാമത്തിന്റെ ഫലങ്ങൾ tale iisctagmail com ൽ പങ്കിട്ടതിന് നന്ദി അടുത്ത യൂണിറ്റിൽ "എക്സിറ്റ് സർവേയുടെ രൂപകൽപ്പനയും ഉപയോഗവും മനസിലാക്കുക" എന്നതിലെ ഞങ്ങൾ ലബോറട്ടറി കോഴ്സുകളും എലക്ടീവ് കോഴ്സുകളും പരിശോധിക്കും ഞങ്ങൾ രൂപകൽപ്പന ചെയ്ത ഈ എക്സിറ്റ് സർവേ തികച്ചും വഴക്കമുള്ളതാണ് ഒരു പാഠ്യപദ്ധതിയുടെ എല്ലാ ഘടകങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ കഴിയും കോർ കോഴ്സുകൾ എലക്ടീവ് കോഴ്സുകൾ ലബോറട്ടറി കോഴ്സുകൾ പ്രോജക്ടുകൾ പക്ഷേ ലബോറട്ടറികളും എലക്ടീവ് കോഴ്സുകളും പ്രോജക്റ്റുകളും പരിശോധിക്കുമ്പോൾ ചില അധിക പരിഗണനകൾ ചിത്രത്തിലേക്ക് വരുന്നു നന്ദി അടുത്ത യൂണിറ്റിൽ ഞങ്ങൾ നിങ്ങളെ കാണും